ഹലോ ക്ലൌഡ് കമ്പ്യൂട്ടിംഗി പ്രക്രിയയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതിനാൽ അതാണ് കാര്യങ്ങളുടെ അടിസ്ഥാന ലക്ഷ്യം അല്ലെങ്കിൽ മാതൃക ബാക്കെൻഡിൽ ലഭിക്കുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ ഉപഭോക്തൃ അറ്റത്ത് നിന്ന് ക്ലൌഡ് അതിനാൽ നമുക്ക് ധാരാളം മൾട്ടിമീഡിയ ഡാറ്റകൾ ഉണ്ട് മറുവശത്ത് ഒരു വലിയ അളവിലുള്ള ഡാറ്റ ഉപകരണങ്ങൾ അവ കണക്കുകൂട്ടലിന്റെയും വിഭവസമൃദ്ധമായ കാര്യങ്ങളുടെയും കാര്യത്തിൽ കൂടുതൽ ശക്തമായി മാറുന്നു അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ എല്ലായ്പ്പോഴും കാര്യങ്ങളിൽ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല ഒരു പ്രത്യേക സെൻസർ നോഡ് ഉണ്ടെന്ന് കരുതുക അതിനാൽ എന്റെ അടിസ്ഥാന മോഡൽ എന്താണ് ഈ താപനില 18 മുതൽ 22 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ വ്യത്യാസപ്പെട്ടിരിക്കാം അത് ഈ താപനിലയുടെ പ്രവർത്തന ശ്രേണിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ 10 സെൻസറു നടക്കുന്നുണ്ട് താപനില എവിടെയെങ്കിലും വ്യത്യാസപ്പെടുന്നുണ്ടെങ്കിൽ അത് പിശക് അയയ്ക്കുന്നു ഇപ്പോൾ ഈ പ്രത്യേക അടച്ച ലാബോ മുതലായവയുമായി ശരാശരി ആയിരിക്കാം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ 10 സെൻസറു എടുക്കാം ചില 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ അതെ അല്ലെങ്കിൽ ഇല്ല തരത്തിലുള്ള കാര്യങ്ങൾ എന്നിട്ട് ഇത് പ്രക്ഷേപണം ചെയ്യുക മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇത് കമ്പ്യൂട്ടിംഗിന്റെ ആണ് അതിനാൽ വെല്ലുവിളികളോ ഡാറ്റലേക്ക് അപ്ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രക്ഷേപണം ചെയ്യുകയോ ചെയ്യേണ്ടതാണ് അതിനാൽ നമ്മൾ ചർച്ച ചെയ്യുന്ന മുഴുവൻ ഡാറ്റലേക്ക് കൈമാറേണ്ടതുണ്ട് ഇന്നത്തെ ലോകം ചായ്വുള്ള ക്ലൌഡി ചെയ്യുന്ന എല്ലാം ഞാൻ ഓഫ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിനാൽ എന്റെ ഉപയോക്തൃ അറ്റത്ത് വളരെ കുറച്ച് ഇൻഫ്രാസ്ട്രക്ചർ മാനേജുമെന്റ് എനിക്ക് ആവശ്യമൊള്ളു രണ്ടാമതായി ഒടുവിൽ ഞങ്ങൾക്ക് ഒരു മീറ്റർ ചെയ്ത സേവനത്തിന്റെ ശരിയായ വേതനം മോഡലായി അതിനാൽ ഈ മൂന്ന് കാര്യങ്ങൾ അത് ചലനാത്മക സ്കേലബിളിറ്റി അല്ലെങ്കിൽ എന്റെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ മാനേജുമെന്റുകളും ക്ലൌഡിലേക്ക് തള്ളിവിടുകയും നിങ്ങൾ മോഡലിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന മീറ്റർ ചെയ്ത സേവന പേ ഇവ ക്ലൌഡിന്റെ പ്രാഥമിക സവിശേഷതകളാണ് ഇത് ജനപ്രിയമാക്കുന്ന മറ്റ് നിരവധി കാര്യങ്ങളുണ്ട് എന്നിരുന്നാലും ഒരിക്കലും ഈ മൂന്ന് കാര്യങ്ങളാണ് ചാലകശക്തി അതിനാൽ നമ്മൾ എന്തുതന്നെ ചെയ്താലും അത്തരം സവിശേഷതകളിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു കാര്യങ്ങൾ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല തുടർന്ന് ക്ലൌഡിലേക്ക് പോകാനുള്ള പ്രചോദനം വെല്ലുവിളിക്കപ്പെടാം

ഇപ്പോൾ ക്ലൌഡ് കൈമാറാൻ ധാരാളം ഉണ്ട് അതിനാൽ ആശയവിനിമയം നടക്കുന്നു മനുഷ്യന്റെ സ്മാർട്ട് കൈമാറേണ്ടതുണ്ട് അവിടെ തിരക്കും ഉണ്ടാകാം മാത്രമല്ല അത്തരം പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ക്രാഷുകൾ തടയുന്നതിന് വളരെ കുറഞ്ഞ പ്രതികരണ സമയം മാത്രമേ ലഭിക്കൂ അതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടത്തിന് കാരണമാകുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എനിക്കുണ്ടെങ്കിൽ ചില അപകട തടയൽ സംവിധാനങ്ങൾ സജീവമാക്കണം അതിനാൽ വളരെ കുറഞ്ഞ പ്രതികരണ സമയം ആവശ്യമുള്ളിടത്ത് ഉടൻ തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട് അതിനാൽ ആ ക്ലൌഡ് എടുത്ത് മടങ്ങിവരുന്നതിനായി കാത്തിരിക്കുന്നു ഒപ്പം അവയെല്ലാം വളരെയധികം സമയമെടുക്കും അത് മറ്റൊരു പ്രശ്നമാണ് അതിനാൽ ഫോഗ് കമ്പ്യൂട്ടിംഗ് നിന്നും അരികുകളിലേക്കോ ഇന്റർമീഡിയറ്റിലേക്കോ നെറ്റ്വർക്കിന്റെ അരികുകളിലേക്കോ തള്ളുകയാണ് ഫോഗ് കമ്പ്യൂട്ടിംഗ് കുറയ്ക്കുന്നതിന് ഇത് ഞങ്ങളെ സഹായിക്കുന്നു എനിക്ക് ഒരു പ്രാദേശിക തീരുമാനം എടുക്കാം അത് ആഗോള തരത്തിലുള്ള കാര്യങ്ങൾക്ക് ആവശ്യമില്ല അവർ പറയുന്നു സ്മാർട്ട് ട്രാഫിക് ലൈറ്റ് മാനേജുമെന്റ് സിസ്റ്റം കൊൽക്കത്തയിലെ ട്രാഫിക് ലൈറ്റ് മാനേജുമെന്റ് മാനേജുമെന്റ് പ്രാദേശികമായി ചെയ്യാനാകും ഫോഗിംഗ് ശേഷിയോ വിഭവങ്ങളോ ഉയർന്ന വിഭവങ്ങൾക്ക് താഴ്ന്ന തലത്തിൽ പരിഹരിക്കാവുന്ന ഒരു ജോലി ചെയ്യാൻ കഴിയും അതിനാൽ സിഐഎസ്സിഒയുടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നു എനിക്ക് ഉപകരണങ്ങളിൽ ആപ്ലിക്കേഷനുകൾ പ്രവർത്തിപ്പിക്കാനും അങ്ങനെ ചെയ്യാനുമാകും അതിനാൽ ഉപയോക്താക്കൾക്ക് നെറ്റ്വർക്ക് വ്യത്യസ്ത ലെയറിന്റെ അരികുകളിലേക്ക് വിഭവങ്ങൾ ലഭ്യമാണ് അതിനാൽ നമ്മൾഒരു കാഴ്ച നോക്കുകയാണെങ്കിൽ ഈ ക്ലൌഡ് പിടിച്ചെടുക്കാനും കണക്കുകൂട്ടാനും പ്രക്ഷേപണം ചെയ്യാനും കഴിയുന്ന ഏതൊരു ഉപകരണവും അതിനാൽ ഇന്റലിജൻസ് താപനില മുതൽ ഈർപ്പം വരെ ഒരുതരം വായു മലിനീകരണം അല്ലെങ്കിൽ വായു ഉള്ളടക്കം മുതലായവ പ്രവർത്തിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും സെൻസറു പോലെ

അതിനാൽ റോഡ് ക്യാപ്ചർ ചെയ്യുന്ന ക്യാമറകൾനെക്കുറിച്ചാണ് അതിനാൽ നമ്മൾ ഫോഗ് കമ്പ്യൂട്ടിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ ക്ലൌഡ് അയയ്ക്കാതെ ബാൻഡ്വിഡ്ത്തിന്റെ ആവശ്യകത കുറയ്ക്കുന്നു പകരം ഒരു നിശ്ചിത അക്ഷ പോയിന്റിൽ സമാഹരിക്കുന്നു അതിനാൽ ഇത് സമാഹരിച്ച് മൊത്തം ഡാറ്റ അയയ്ക്കുന്നു ഇത്തരത്തിലുള്ള വിതരണ തന്ത്രം ചെലവ് കുറയ്ക്കുന്നതിനും കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും സഹായിച്ചേക്കാം അതിനാൽ ഇത്തരത്തിലുള്ളത് ഒരു വിതരണ തന്ത്രമാണ് പണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല മൊത്തത്തിലുള്ള ചെലവ് കുറയ്ക്കുന്നതിന് ഇത്തരത്തിലുള്ള വിതരണ പ്രതിഭാസങ്ങൾ ഞങ്ങളെ സഹായിച്ചേക്കാം സമയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രക്ഷേപണച്ചെലവും എനിക്ക് കാര്യക്ഷമതയും ചെയ്യാൻ കഴിയുമെങ്കിൽ എനിക്ക് തത്സമയം പ്രവർത്തിപ്പിക്കുന്ന നിരവധി ആപ്ലിക്കേഷനുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയും അതിനാൽ ഈ പ്രചോദനം ഇതിനകം തന്നെ വ്യക്തമാണ് ഫോഗ് കമ്പ്യൂട്ടിംഗിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതെല്ലാം ക്ലൌഡ് നടത്തുകയോ അല്ലെങ്കിൽ ആ പ്രദേശത്തിന്റെ ആ ഭാഗത്ത് ഒരുതരം ക്ലൌഡ് സേവനം നൽകുകയോ ചെയ്യുന്നു കാര്യങ്ങളുടെ മറ്റൊരു വശമുണ്ട് കാരണം നമുക്ക് നിരവധി സംഭവവികാസങ്ങൾ ഉണ്ട് ഒന്ന് സ്മാർട്ട് ഗ്രിഡ് മറ്റൊന്ന് നഗരങ്ങളിലെ സ്മാർട്ട് ട്രാഫിക് ലൈറ്റിംഗ് പ്രത്യേകിച്ചും നഗരങ്ങളുമായി ബന്ധിപ്പിച്ച വാഹനങ്ങൾ അല്ലെങ്കിൽ ശക്തമായ റെഗുലർ നെറ്റ്വർക്കുകൾ ഒപ്പം സോഫ്റ്റ്വെയർ നിർവചിക്കപ്പെട്ട നെറ്റ്വർക്ക് അതിനാൽ ഈ വ്യത്യസ്ത വശങ്ങൾ തന്നെ പ്രവർത്തിക്കേണ്ട വിഷയമാണ് എന്നാൽ സ്മാർട്ട് ഗ്രിഡ് ഉയർന്ന അറ്റത്ത് കൈമാറുന്നു അതിനാൽ ഈ വ്യത്യസ്ത വശങ്ങളെല്ലാം പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാം ക്ലൌഡിലേക്ക്നമ്മൾകാണുന്നത് ഇതാണ് അതിനാൽ നമ്മൾ ചർച്ച ചെയ്തതും ഇതുതന്നെ ഈ ഫോഗി വശങ്ങൾ ഉണ്ടാകാം അതിനാൽ ഇവ അങ്ങനെയല്ല അതിനാൽ അതിൽ ശക്തമാണ് പക്ഷേ അവ ഇന്റർമീഡിയറ്റ് വർത്തിക്കുന്നു ഇതുപോലെയാണ് ഇവിടെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് അതിനാൽ ഇവ ഒരുതരം ആശയവിനിമയമാണ് അതെ രണ്ട് വഴികളിലുമുള്ള അമ്പടയാളം കണ്ടാൽ ഈ അറ്റത്ത് തന്നെ ഒരു കോൾലേക്ക് ഇടുക അതിനാൽ നമുക്ക്കൂടുതൽ സംവേദനാത്മകവും കൂടുതൽ പ്രതികരിക്കുന്നതുമായ ഏന്റുണ്ട് മറ്റേ അറ്റത്ത് കൂടുതൽ കമ്പ്യൂട്ടിംഗ് പവറും കൂടുതൽ സംഭരണ ഏന്റും ഉണ്ട് അതിനാൽ എല്ലാം ക്ലൌഡി നൽകുന്നത് നമ്മൾ ഇടയ്ക്കിടെ ചെയ്യുന്നു അതിനാൽ ഇത് തീർച്ചയായും ഒരു പ്രധാന പ്രചോദനമാണ് ക്ലൌഡിൻ്റെ കാര്യത്തിൽ സംരക്ഷിക്കപ്പെടേണ്ടതും അവ ഇപ്പോഴും നിലനിൽക്കുന്നതുമാണ് നമ്മൾ ചർച്ച ചെയ്തതുപോലെ അതിനാൽ ഫോഗ് കമ്പ്യൂട്ടിംഗുണ്ട്ന്റെ ഓവർഹെഡ് കുറയ്ക്കുന്നു ജനപ്രിയ കണ്ടെയ്നറുകളിലൊന്നാണ് ഡോക്കർ കണ്ടെയ്നർ അതിനാൽ ആ പ്രത്യേക കാര്യങ്ങളിലേക്ക് ഡോക്ക് ചെയ്ത് പ്രവർത്തിക്കുക എന്നതാണ് ആശയം അതിനാൽ കാര്യത്തിനൊപ്പം ഡിപൻഡൻസികളും വഹിക്കണമെന്ന് നിങ്ങൾക്കില്ല അതിനാൽ ഇത് വീണ്ടും ഒരു പ്രത്യേക വിഷയമാണ് അത് നമ്മൾഎപ്പോഴെങ്കിലും ചർച്ചചെയ്യും പക്ഷേ അതാണ് ഈ ഡോക്കിംഗ് അല്ലെങ്കിൽ കണ്ടെയ്നർ സേവനങ്ങൾ വളരെ ജനപ്രിയമാകുന്നത് അതിനാൽ അതായത് ഇവിടെ മറ്റൊരു സാങ്കേതികവിദ്യ പ്രാപ്തമാക്കുന്നു നമ്മൾ ചർച്ച ചെയ്തതുപോലെ ക്ലൌഡിനായി പ്രാപ്തമാക്കുന്ന സാങ്കേതികവിദ്യയായ സേവനാധിഷ്ഠിത ആർക്കിടെക്ചറും ഉണ്ട് അത് സേവന ദാതാവിന്റെ മൂന്ന് പ്രധാന ഘടകങ്ങളാണ് സേവന ഉപഭോക്താവും സേവന രജിസ്ട്രിയും അതിനാൽ വൈവിധ്യമാർന്ന അയഞ്ഞ കപ്പിൾ പാർട്ടികൾക്ക് പരസ്പരം സംസാരിക്കാൻ കഴിയും അതിനാൽ എസ്ഒഎ ആർക്കിടെക്ചറിൽ ഡ്രൈവിംഗ് പ്രാപ്തമാക്കുന്ന സാങ്കേതികവിദ്യയാണ് കൂടാതെ സോഫ്റ്റ്വെയർ നിർവചിക്കപ്പെട്ട നെറ്റ്വർക്ക് വലത് എസ്ഡിഎൻ ആണ് നമ്മൾകാണുന്നത് അതിനാൽ ഓപ്പൺ പ്രോട്ടോക്കോളുകൾ ഉപയോഗിക്കുന്നതിനുള്ള ഒരു സമീപനമാണ് എസ്ഡിഎൻ ഉദാഹരണത്തിന് നെറ്റ്വർക്ക് സ്വിച്ചുകൾ റൂട്ടറുകൾ ആക്സസ് ചെയ്യുന്നതിന് നെറ്റ്വർക്കിന്റെ അരികുകളിൽ ആഗോളതലത്തിൽ അവബോധമുള്ള സോഫ്റ്റ്വെയർ നിയന്ത്രണം പ്രയോഗിക്കുന്നതിനുള്ള ഓപ്പൺ ഫ്ലോ അതിനാൽ സോഫ്റ്റ്വെയർ നിർവചിക്കപ്പെട്ട നെറ്റ്വർക്കിൽ വളരെ പ്രചാരമുള്ളതോ ഇതിനകം ജനപ്രിയമായതോ ആയ മറ്റൊരു സാങ്കേതികവിദ്യയാണിത് കൂടാതെ ഫോഗ്ഗിനും സാങ്കേതികവിദ്യ പ്രാപ്തമാക്കുന്നു അതിനാൽ ഈ നിരവധി സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഫോഗ് ഒരു യാഥാർത്ഥ്യമാവുകയാണ് കൂടാതെ നിരവധി സന്ദർഭങ്ങളിൽ വിന്യസിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു അതിനാൽ ആ ഫോഗിനെ ക്ലൌഡ്ന്റെ ഉണ്ട് കൂടുതൽ ദ്രുത പ്രതികരണങ്ങൾ ആവശ്യമാണ് മൊത്തത്തിലുള്ള പ്രക്രിയ ചെലവ് കുറഞ്ഞതും കാര്യക്ഷമവുമായിരിക്കാം അതിനാൽ ക്ലൌഡ് ഉപകരണങ്ങളിലൂടെ കടന്നുപോകുന്ന അന്തിമ ഉപകരണം കാര്യങ്ങളുടെ ചലനാത്മകതയെ അടിസ്ഥാനമാക്കി മാറും ഇപ്പോൾ ഇതിന് പാതയുടെ വീണ്ടും സമന്വയിപ്പിക്കൽ ആവശ്യമാണ് പ്രാദേശികമായി എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് കമ്പ്യൂട്ടിംഗും പ്രതികരണ സമയവും ആയിരിക്കാം അതിനാൽ ചലനാത്മകതയ്ക്കൊപ്പം കുറഞ്ഞ ലേറ്റൻസിയും ലൊക്കേഷൻ അവബോധവും വ്യാപകമാണ് സെൻസറുകൈമാറേണ്ട ആവശ്യമില്ല ഈ വലിയ അളവിലുള്ള ഡാറ്റ

അതിനാൽ എനിക്ക് വൈവിധ്യമാർന്ന ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും അതിനാൽ നേട്ടം നമ്മൾ ഇതിനകം ചർച്ചചെയ്തിട്ടുണ്ട് അതിനാൽ അന്തിമ ഉപയോക്താവിനോടുള്ള സാമീപ്യം ഉപയോഗിച്ച് ഇത് ക്ലൌഡി കാര്യക്ഷമതയും തരവും തീർച്ചയായും സുരക്ഷയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഉപകരണങ്ങൾ ചിതറിക്കിടക്കുമ്പോൾ വ്യത്യസ്ത ഫോഗ്ഉപകരണങ്ങളിൽ അതിനാൽ ഇത് ഡാറ്റ പ്രോസസ്സിംഗ് ചോർച്ചയുണ്ടാകുകയും ചെയ്യും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാൻ സ്മാർട്ട് ഗ്രിഡ് ഐപി വിലാസങ്ങൾ റിപ്പോർട്ടുചെയ്യാം സാധാരണ നെറ്റ്വർക്ക് സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഇവിടെ വന്നേക്കാം അതിനാൽ ഒരു വെല്ലുവിളിയാകാം തീർച്ചയായും സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് ക്ലൌഡിൽ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്നാൽ ഇത് നിങ്ങൾക്ക് വ്യത്യസ്ത ഉപകരണങ്ങൾ ഉള്ളതിനാൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് സജീവമാക്കുന്നു ഇന്ന് നമ്മൾ കാണുന്നത് ഈ ഫോഗ് ക്ലൌഡി അറ്റത്തുള്ള ഡാറ്റ ലോഡും കുറയ്ക്കുന്നു അതിനാൽ നമ്മൾ ഇത് കാണുന്നത് ഒരു സാങ്കേതികവിദ്യയാണ് അത് സമയത്തിന്റെ ആവശ്യകതയാണ് പ്രത്യേകിച്ചും ഐഒടികളും മറ്റ് കാര്യങ്ങളും വലിയ തോതിൽ വരുന്നു അതിനാൽ ഇതോടു കൂടെ നമ്മൾ ഇന്നു നിർത്തുകയാണ് നന്ദി